ഇതുവരെ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ആംപ്ലിഫയർസ് എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നാം പഠിച്ചത് ബേസിക് കോമൺ സോഴ്സ് ആംപ്ലിഫയറും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്ന സങ്കീർണമായ കൺട്രോൾ സോഴ്സസും മിക്കവാറും സ്ഥലത്ത് MOS ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യാനുള്ള ഉത്തമമായ മാർഗ്ഗം കറൻറ് സോഴ്സ് ഉപയോഗിക്കുക എന്നതായിരുന്നു അതായത് തന്നിരിക്കുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൽ ബയാസ് ചെയ്യുന്നതിനേക്കാൾ MOS ട്രാൻസിസ്റ്റർ തന്നിരിക്കുന്ന കറണ്ടിൽ ബയാസ് ചെയ്യുക ഇനി ചോദ്യം ഈ കറൻറ് സോഴ്സസ് എങ്ങനെ റിയലൈസ് ചെയ്യും എന്നുള്ളതാണ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് നമുക്ക് ചില പദ്ധതികൾ ഉണ്ട് സാച്ചുറേഷൻ റീജിയണിൽ പ്രവർത്തിക്കുന്ന MOS ട്രാൻസിസ്റ്റർ സ്വയം കറൻറ് സോഴ്സ് ആയി പെരുമാറുന്നു ഉദാഹരണത്തിന് നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യണം എന്ന് കരുതുക സോഴ്സ് ഫീഡ്ബാക്ക് ബയാസിംഗിൻറെ കാര്യമെടുക്കുക ഇവിടെ കറണ്ട് സോഴ്സ് Io ഉണ്ട് ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിനോടൊപ്പം ട്രാൻസിസ്റ്റർ M1 ൽ കറൻറ് Io സ്ഥാപിക്കുന്നു ഇനി കറണ്ട് സോഴ്സ് Io എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് ഒരു സിംഗിൾ കറണ്ട് സോഴ്സ് സ്ഥാപിക്കുന്നതിന് ചില രീതികളുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല പക്ഷേ താഴെ പറയുന്ന കാര്യം നമുക്കറിയാം സിംഗിൾ കറണ്ട് സോഴ്സ് Io മാത്രം നൽകിയിട്ടുള്ള കറൻറ് മിറർ സ്ട്രക്ചർ നമുക്കറിയാം നമുക്ക് നിരവധി കറണ്ട് സോഴ്സസ് നിർമ്മിക്കാൻ സാധിക്കും MOS ട്രാൻസിസ്റ്ററിലൂടെ കടന്നുപോകുന്ന ഈ ലൈൻ അർത്ഥമാക്കുന്നത് ഈ ഗേറ്റിൽ നിന്നും ആ ഗേറ്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇനി ഇത് പല തവണ ആവർത്തിക്കാം സാച്ചുറേഷൻ റീജിയൺ ഉള്ളിടത്തോളം ഇവയെല്ലാം കറൻറ് വലിച്ചെടുക്കും Io എന്നതിനുപകരം ഇങ്ങനെ ഒരു ഉപകരണം ബയാസ് ചെയ്യാൻ ഉപയോഗിക്കാം നമുക്കൊരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാം ഇവയെല്ലാം പരസ്പരം ഐഡൻറ്റിക്കൽ ആണെന്ന് കരുതുക ഇത് മതിയാകും പക്ഷേ ചിത്രം പൂർണ്ണമല്ല നമ്മുടെ അടുത്തുള്ള ട്രാൻസിസ്റ്റർസ് ഉപയോഗിച്ച് നോഡിൽ നിന്നും മാത്രമേ കറൻറ് പുൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ അർത്ഥമാക്കുന്നത് ഇത്തരം 2 ടെർമിനൽസും ലഭ്യമായിട്ടുള്ള കറൻറ് സോഴ്സ് നമുക്കില്ല ഈ നോഡിൽ നിന്നും വലിച്ചെടുക്കുന്ന കറൻറ് ഈ നോഡിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നു പക്ഷേ ഈ 2 ടെർമിനൽസും നമുക്ക് ലഭ്യമല്ല ഇത്തരത്തിലുള്ള ഒരു ചിത്രം ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇതിൽ കറൻറിൻറെ ഈ ഭാഗം ഗ്രൌണ്ട് ചെയ്തിരിക്കുകയാണ് ഒരു നോഡിൽ നിന്നും പുൾ ചെയ്യപ്പെടുന്ന കറൻറ് മാത്രമേയുള്ളൂ ഇനി ഡ്രയിൻ ഫീഡ്ബാക്കിൻറെ കാര്യം നോക്കിയാൽ സർക്യൂട്ട് ഇതുപോലെ ആയിരുന്നു ഇതാണ് സപ്ലൈ വോൾട്ടേജ് VDD കറൻറ് ഈ നോഡിലേക്ക് പുഷ് ചെയ്യപ്പെടണം നമുക്ക് ഈ പൊളാരിറ്റിയിൽ ഒരു കറൻറ് സോഴ്സ് ആവശ്യമുണ്ട് ഇതെങ്ങനെ നിർമ്മിക്കും ഈ ഉപകരണത്തെ നാം nMOS ട്രാൻസിസ്റ്റർ ആയി നിർവചിച്ചു കഴിഞ്ഞു ഇതിനെ ഞാൻ MOS ട്രാൻസിസ്റ്റർ എന്നാണ് വിളിച്ചു കൊണ്ടിരുന്നത് പക്ഷേ നാം പരിഗണിക്കുന്ന ഉപകരണം VGS VDS എന്നിവ പൂജ്യത്തെക്കാൾ കൂടുതൽ ആയാണ് പ്രവർത്തിക്കുന്നത് കറൻറ് ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ആണ് ഒഴുകുന്നത് ഇത് n ടൈപ്പ് MOS ട്രാൻസിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് പൊതുവേ ഇതിനെ nMOS ട്രാൻസിസ്റ്റർ എന്നു വിളിക്കുന്നു ഇനി nMOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുമായിരിക്കും പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ടെക്നോളജിയുടെ സഹായത്തോടെ നമുക്ക് കോംപ്ലിമെൻററി ടൈപ്പ് ട്രാൻസിസ്റ്റർ ലഭ്യമാണ് ഇത് p ടൈപ്പ് MOS ട്രാൻസിസ്റ്റർ ആണ് ഇതിനെ pMOS ട്രാൻസിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് ഇതിൽ nMOS ട്രാൻസിസ്റ്ററിൻറെ കോംപ്ലിമെൻററി ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് ഈ സിംബൽ ഉപയോഗിച്ചാണ് ഇത് അടയാളപ്പെടുത്തുന്നത് ഞാൻ മുകളിൽ സോഴ്സ് വരയ്ക്കുന്നു താഴെ ഡ്രയിൻ വരയ്ക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന കൺവെൻഷൻ ആയിത്തീർന്നത് എന്ന് ഞാൻ പിന്നീട് പറയാം ഈ കേസിൽ കറൻറ് സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ഒഴുകുന്നു ഇതിനെ ID എന്ന് തന്നെ വിളിക്കാം nMOS ട്രാൻസിസ്റ്ററിൻറെ കാര്യത്തിൽ കറൻറ് ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ആണ് ഒഴുകുന്നത് ഇവിടെ കറൻറ് സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ഒഴുകുന്നു ഇതാണ് കോംപ്ലിമെൻററി ടൈപ്പ് ഇത്തരം കറൻറ് സോഴ്സസ് ഉണ്ടാക്കാൻ ഇത് വളരെ സഹായകരമാണ് കറൻറ് സോഴ്സസ് മാത്രമല്ല ആംപ്ലിഫയർസ് കൂടി ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാം ഇനി pMOS ട്രാൻസിസ്റ്ററിൻറെ ക്യാരക്ടറിസ്റ്റിക്സ് ചർച്ച ചെയ്യാം ഓപ്പറേറ്റിംഗ് പോയൻറ് എങ്ങനെ സ്ഥാപിക്കാമെന്നും pMOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ ആംപ്ലിഫയർസ് റിയലൈസ് ചെയ്യാമെന്നും നോക്കാം വെറും ഒരു താരതമ്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ എൻ മോസ് ട്രാൻസിസ്റ്റർ ചേർക്കാം ഇതാണ് ഡ്രയിൻ ഗേറ്റ് സോഴ്സ് നാം ഗേറ്റ് സോഴ്സ് വോൾടേജ് ഡ്രയിൻ സോഴ്സ് വോൾട്ടേജ് എന്നിവയെ ഇൻഡിപെൻഡൻറ് വേരിയബിൾസ് ആയി എടുക്കുന്നു കറൻറ് ID യെ ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുകുന്ന കറൻറ് ആയി വിവരിക്കുന്നു ഗേറ്റ് കറൻറ് പൂജ്യം ആണ് ഇതാണ് എൻ മോസ് ട്രാൻസിസ്റ്റർ പി മോസ് ട്രാൻസിസ്റ്ററിൻറെ കാര്യത്തിൽ വീണ്ടും ഞാൻ സോഴ്സ് മുകളിലും ഡ്രയിൻ താഴെയുമായി വരച്ചിരിക്കുന്നു ഗേറ്റ് ഇവിടെയാണ് നാം സോഴ്സ് ഗേറ്റ് വോൾടേജ് VSG സോഴ്സ് ഡ്രയിൻ വോൾട്ടേജ് VSD എന്നിവയെ ഇൻഡിപെൻഡൻറ് വേരിയബിൾസ് ആയി എടുക്കുന്നു കറൻറ് ID ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുകുന്ന കറൻറ് ആയി വിവരിക്കുന്നു നിങ്ങൾ ഈ കൺവെൻഷൻ അറിഞ്ഞിരിക്കണം അങ്ങനെയാകുമ്പോൾ കറൻറ് ഇക്വേഷൻസ് എഴുതുമ്പോൾ ഇത് ശരിയായ ദിശയിൽ വരും നാം പറഞ്ഞതുപോലെ എൻ മോസ് ട്രാൻസിസ്റ്റർ VGS VDS എന്നിവ പൂജ്യത്തെക്കാൾ കൂടുതൽ ആകുമ്പോഴാണ് പ്രവർത്തിക്കുക അതായത് VGS VDS എന്നിവ ഈ പൊളാരിറ്റിയിൽ പോസിറ്റീവ് ആകുമ്പോൾ ID കൂടി പൂജ്യത്തെക്കാൾ കൂടുതൽ ആണ് ഇത് എപ്പോഴും ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുകുന്നു ഇതാണ് ഇവിടെയും നടക്കുന്നത് അതായത് VSG VSD എന്നിവ പൂജ്യത്തെക്കാൾ കൂടുതൽ ആണ് അതായത് ഈ പൊളാരിറ്റിയിൽ പോസിറ്റീവ് വോൾട്ടേജസ് ഉണ്ടാകും അതിനാലാണ് സാധാരണ കൺവെൻഷനിൽ പി മോസ് ട്രാൻസിസ്റ്ററിൽ സോഴ്സ് മുകളിലും ഡ്രയിൻ താഴെയുമായി കാണിക്കുന്നത് പൊതുവെ നാം ഒരു സർക്യൂട്ട് വരയ്ക്കുമ്പോൾ പേജിന് മുകളിലേക്ക് പോകുമ്പോൾ വോൾട്ടേജ് വർദ്ധിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഓരോ സർക്യൂട്ടിലും ഉപയോഗിക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ച് എ സി വോൾട്ടേജസ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിസ് ഉണ്ടാകുമ്പോൾ പക്ഷേ ഓപ്പറേറ്റിംഗ് പോയൻറിന് എങ്കിലും താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ വോൾട്ടേജസ് വർദ്ധിക്കും ഒരു പി മോസ് ട്രാൻസിസ്റ്ററിൻറെ കാര്യത്തിൽ സോഴ്സ് ഡ്രയിനിനേക്കാൾ കൂടിയ വോൾട്ടേജിൽ ആണ് അതിനാൽ സോഴ്സ് മുകളിലും ഡ്രയിൻ താഴെയുമായി വരയ്ക്കുന്നു ID തീർച്ചയായും ഈ ദിശയിൽ പോസിറ്റീവ് ആണ് ഇതിനെ ഞാൻ ഡ്രയിൻ കറൻറ് എന്നു തന്നെ തുടർന്നും വിളിക്കും പക്ഷേ ഈ കറൻറ് സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ആണ് ഒഴുകുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ പി മോസ് എൻ മോസ് എന്നിവ വിവരിക്കാൻ പലതും തെരഞ്ഞെടുക്കാം എപ്പോഴും VGS VDS മുതലായവ ഉപയോഗിച്ചാണ് ഇവ വിവരിച്ചിരിക്കുന്നത് ചിലപ്പോൾ പി മോസ് ഇക്വേഷൻസ് VGS നെഗറ്റീവ് ആയി എഴുതി കണ്ടിരിക്കാം പക്ഷേ നമുക്ക് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാം അതിനാൽ എല്ലാ ക്വാണ്ടിറ്റിസും പോസിറ്റീവ് ആയി തന്നെ വരും നമുക്ക് ദിശ അറിഞ്ഞിരിക്കുന്നതിനാൽ ഇത് പ്രശ്നം ഉണ്ടാകില്ല ഇനി പി മോസ് ട്രാൻസിസ്റ്ററിൻറെ മോഡൽ എൻ മോസ് ട്രാൻസിസ്റ്ററിൻറെതിന് സമാനമാണ് പാരമീറ്റർസിൻറെ വാല്യൂസ് വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം VSG എന്നത് Vt യെക്കാൾ കുറവാണെങ്കിൽ പി മോസ് ട്രാൻസിസ്റ്ററിൽ ID പൂജ്യമായിരിക്കും വീണ്ടും ഇത് ടെക്നോളജിയെ ആശ്രയിച്ചിരിക്കും പക്ഷേ കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിൽ ത്രഷോൾഡ് വോൾട്ടേജ് പൂജ്യത്തെക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ എൻ മോസ് പി മോസ് എന്നിവയുടെ ത്രഷോൾഡ് വോൾട്ടേജ് വേർതിരിക്കാൻ പി മോസ് ത്രഷോൾഡ് VTP എൻ മോസ് ത്രഷോൾഡ് VTN ഒരേ ചിപ്പിൽ തന്നിരിക്കുന്ന ഒരു പ്രോസസ്സിൽ ഇവ വ്യത്യസ്തമാകാം എൻ മോസ് പോലെ ഇതൊരു സമാനമായ പ്രതിഭാസം ആണ് ട്രാൻസിസ്റ്റർ ഓൺ ആകാൻ ഈ രണ്ട് VSG തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസം ഒരു സംഖ്യയേക്കാൾ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ കറൻറ് പൂജ്യമായിരിക്കും ഇത് µpCoxWL VSD VSD 2 2 എന്നതിന് തുല്യമാണ് ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ആണ് ഇതിന് സാധുതയുള്ളത് അതായത് VSG എന്നത് Vtp എന്നതിനെക്കാൾ വലുതായിരിക്കും സോഴ്സ് ഡ്രെയിൻ വോൾട്ടേജ് VSG മൈനസ് Vtp എന്നതിനെക്കാൾ കുറവായിരിക്കും തീർച്ചയായും ഇത് ലീനിയർ അല്ലെങ്കിൽ ട്രയോഡ് റീജിയണിൽ യോജിച്ചതായിരിക്കും ഇക്വേഷൻസ് പഴയതുപോലെ തന്നെ ആയിരിക്കുമെന്ന് പറയാൻ സാധിക്കും VGS എന്നതിനുപകരം VSG VDS എന്നതിനു പകരം VSD എന്നേയുള്ളൂ µpCox എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന പാരമീറ്ററിൽ പി ടൈപ്പ് ക്യാരിയർസ് ആയ ഹോൾസിൻറെ മൊബിലിറ്റി ഇലക്ട്രോൺസിൻറെ മൊബിലിറ്റി ആയ µn നിന്നും വ്യത്യസ്തമാണ് അതിനാൽ µpCox എന്നത് µnCox എന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത് µnCox എന്നതിനേക്കാൾ ചെറുതാണ് കൂടാതെ മറ്റു റീജിയനിൽ µpCox2 WL 2 ഉണ്ട് അതിനാൽ മോഡൽ അതുപോലെ തന്നെ കാണപ്പെടുന്നു ഇത് ട്രാൻസിസ്റ്റർസ് ഓൺ ആയിരിക്കുമ്പോഴാണ് നിലനിൽക്കുന്നത് VSG ≥ Vtp 99 VSD ≥ ഇത് സാച്ചുറേഷൻ റീജിയന് യോജിച്ചതാണ് മോഡൽ അതുപോലെ തന്നെയാണെന്ന് കാണാൻ കഴിയും ഒരേയൊരു കാര്യം പാരമീറ്റർ വ്യത്യസ്തമാണ് എന്നതാണ് VTP എന്നത് VTN എന്നതിൽ നിന്നും വ്യത്യസ്തമാണ് µpCox എന്നത് µnCox എന്നതിൽ നിന്നും വ്യത്യസ്തമാണ് പൊതുവേ ഗണ്യമായി ചെറുതാണ് ചില പാരമീറ്റേഴ്സ് എടുക്കാം ഉദാഹരണത്തിന് µpCox 25 µAvolt2 WL1 ആണെന്ന് വെക്കുക പി മോസ് ത്രഷോൾഡ് വോൾട്ടേജ് VTP ഒരു വോൾട് ആണെന്ന് വെക്കുക ഇത് ഉപയോഗിച്ച് സാച്ചുറേഷൻ റീജിയണിൽ പി മോസ് ട്രാൻസിസ്റ്ററിൻറെ ID vs VSG വരയ്ക്കാം ഇത് വോൾട്ട്സിലും ഇത് മൈക്രോ ആമ്പിയറിലും µA ആണ് ഇതിൻറെ ആകൃതി എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം ത്രഷോൾഡ് വോൾട്ടേജ് വരെ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും കറൻറ് ഉണ്ടാകുകയില്ല അതിനുശേഷം VSD കൃത്യമായി പറഞ്ഞാൽ എന്നതിൻറെ സ്ക്വയർ ആയി ഇത് വർദ്ധിക്കുന്നു ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും VSG 2 വോൾട്ടിന് തുല്യം ആകുമ്പോൾ ഇവിടെ 12 5 µA കറൻറ് ഉണ്ടാകും VSG 3 വോൾട്ട് ആകുമ്പോൾ ഇവിടെ 50 µA കറൻറ് ഉണ്ടാകും VSG 4 വോൾട്ട് ആകുമ്പോൾ 12 5 µA കറൻറ് ഉണ്ടാകും സാച്ചുറേഷൻ റീജിയണിൽ ഇങ്ങനെയായിരിക്കും സാച്ചുറേഷൻ റീജിയൻ ഇവിടെയാണെന്ന് കരുതുക ID vs VDS വരയ്ക്കുക ആകൃതി എൻ മോസ് ട്രാൻസിസ്റ്ററിൽ കണ്ടതുപോലെ തന്നെയാണ് VSG ≤ VTP ആയിരിക്കുമ്പോൾ ട്രാൻസിസ്റ്ററിൽ കറണ്ട് ഇല്ല VSG 2 V ആയിരിക്കുമ്പോൾ കറൻറ് 12 5 µA വരെ ഉയർന്ന് സാച്ചുറേഷൻ റീജിയണിൽ നിൽക്കുന്നു VSG 3 V ആയിരിക്കുമ്പോൾ കറൻറ് 50 µA വരെ ഉയർന്ന് സാച്ചുറേഷൻ റീജിയണിൽ നിൽക്കുന്നു VSG 4 V ആയിരിക്കുമ്പോൾ അതുപോലെ ആയിരിക്കുന്നു ഇതാണ് ട്രയോഡും സാച്ചുറേഷൻ റീജിയൺസിനും ഇടയിലുള്ള അതിർത്തി അതിനാൽ മിക്കവാറും എൻ മോസ് ട്രാൻസിസ്റ്റർ പി മോസ് ട്രാൻസിസ്റ്റർ എന്നിവയിൽ എല്ലാം ഒരുപോലെ തന്നെയാണ് വോൾട്ടേജിൻറെ പൊളാരിറ്റി വിപരീതമായാണ് ഉള്ളത് കറൻറ് കൂടി വിപരീതമായാണ് ഉള്ളത് ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുകേണ്ടതിനുപകരം ഇത് സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ആണ് ഒഴുകുന്നത് പാരമീറ്റർസിൻറെ വാല്യൂസ് ആണ് വ്യത്യസ്തം ആയിട്ടുള്ള മറ്റൊരു കാര്യം ഈ µpCox VTP എന്നിവ µnCox VTN എന്നിവയിൽനിന്നും വ്യത്യസ്തമാകാം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പി മോസ് ട്രാൻസിസ്റ്ററിൻറെ സ്വഭാവം വിപരീത പൊളാരിറ്റിസ് ഒഴികെ എൻ മോസ് ട്രാൻസിസ്റ്ററിൻറെ സ്വഭാവത്തിനു സമാനമാണ് ഇതിനർത്ഥം എൻ മോസ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് റിയലൈസ് ചെയ്യുന്ന എല്ലാ സർക്യൂട്ടും പി മോസ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചും റിയലൈസ് ചെയ്യാമെന്നാണ് അതായിരിക്കും ഇനി വരുന്ന അദ്ധ്യായങ്ങളിലെ വിഷയം